FDTD യുടെ സംഗ്രഹം അതിനാൽ ഇത് FDTD രീതിയുടെ അവസാനത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു അതിനാൽ നമ്മൾ നോക്കിയ വിവിധ വശങ്ങളെക്കുറിച്ച് ഒന്ന് ചുരുക്കിപ്പറയാം അതിനാൽ നമ്മൾ എന്തിൽനിന്നാണ് ആരംഭിച്ചത് അതിനാൽ ഇവിടെ നിരവധി മൊഡ്യൂളുകൾ ഉള്ളതിനാൽ നമ്മൾ ആദ്യം ചെയ്തത് എന്താണ് നമ്മൾ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ എടുക്കുകയും പിന്നീട് പരിമിതമായ വ്യത്യാസങ്ങൾ ചെയ്യുകയും ചെയ്തു ഭാഗിക ഡെറിവേറ്റീവുകളുടെ കൃത്യമായ പ്രാതിനിധ്യം ലഭിക്കാൻ നമ്മൾ ഉപയോഗിച്ചിരുന്ന പരിമിതമായ വ്യത്യാസങ്ങൾക്കുള്ള പ്രധാന ആശയം എന്താണ് ടെയ്ലറുടെTaylor's സിദ്ധാന്തം ഏറ്റവും കുറഞ്ഞ തെറ്റ് എങ്ങനെ ലഭിക്കാം എന്ന് കാണാൻ ടെയ്ലറുടെ സിദ്ധാന്തം നമ്മെ അനുവദിച്ചു അതിനാൽ നമുക്ക് പരിമിതമായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുചെയ്യാൻ കഴിയും പകരം നമ്മൾ എന്താണ് ചെയ്തത് നമ്മൾ അതിനെ ഡിസ്ക്രീറ്റൈസ് ചെയ്തു അതിനാൽ നമ്മൾ ഒരു സ്റ്റെൻസിൽ ഉണ്ടാക്കി ഈ സ്റ്റെൻസിൽ യീ സെല്ലായിരുന്നു ഇവിടെ നിന്ന് നമുക്ക് അപ്ഡേറ്റ് സമവാക്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന അവ ലഭിച്ചു ഇത് സ്ഥലത്തിലും സമയത്തിലും ഫീൽഡുകൾ നേടാൻ നമ്മളെ അനുവദിച്ചു അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്തത് അതിനാൽ അപ്ഡേറ്റ് സമവാക്യങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു അത് സ്ഥലത്തിലും സമയത്തിലും എങ്ങനെ ചെയ്യാമെന്ന് നമുക്കറിയാം നമ്മൾ സ്ഥിരതയും നോക്കി അതിനാൽ നമ്മൾ വിശകലനം ചെയ്തു സ്ഥിരത ഉണ്ടായിരുന്നു ഇവിടെയാണ് നമുക്ക് നമ്മുടെ കുറാന്റ് ഘടകം ലഭിച്ചത് കൂടാതെ നമുക്ക് ഒരു ലക്സ് റിച്ച്മിയർ സിദ്ധാന്തവുമുണ്ട് അതിനുശേഷം നമ്മൾ എന്താണ് നോക്കിയത് കുറാന്റ് സ്ഥിരത ഘടകം തൃപ്തികരമാണെന്ന് നമ്മൾ കണ്ടെത്തി എന്നിട്ടും പരിഹാരങ്ങൾ എല്ലായ്പ്പോഴും കൃത്യമല്ലെന്ന് നമ്മൾ കണ്ടെത്തി എന്തായിരുന്നു ആ പ്രകീർണനം ഉണ്ടായത് അതിനാൽ നമ്മൾ വിശകലനം നോക്കി കൃത്യതയിലും കൃത്യത ഇല്ലായ്മയിലും നമ്മൾ നോക്കി ഉദാഹരണത്തിന് പ്രകീർണനം സംഭവിക്കുന്ന സംഖ്യ അങ്ങനെ ചെയ്തതിനുശേഷം നമ്മൾ ഇപ്പോഴും സ്വതന്ത്ര പ്രദേശം കൈകാര്യം ചെയ്യുകയായിരുന്നു തുടർന്ന് നമ്മൾ വസ്തുക്കൾ അവതരിപ്പിച്ചു ശേഷം നമ്മൾ വസ്തുക്കൾ നോക്കി അതിനു ശേഷം ഓം നിയമം ഉപയോഗിച്ച് ലളിതമായ വസ്തുക്കൾ നമ്മൾ കണ്ടു പിന്നീട് എന്താണ് വിദ്യാർത്ഥി അതിർത്തി വ്യവസ്ഥകൾ അല്ല അതിർത്തി വ്യവസ്ഥകളല്ല നമ്മൾ മറ്റൊരു തരത്തിലുള്ള വസ്തു നോക്കിയതാണ് ഈ ആവൃത്തി ആശ്രിത പ്രകീർണന വസ്തുക്കളിൽ നമ്മൾ അധികം സമയം ചെലവഴിക്കുന്നില്ല അത് ഏത് തരത്തിലുള്ള മാതൃകയാണ് വിദ്യാർത്ഥി ഡിബൈ ഡിബൈ മാതൃക അല്ലേ അതിനാൽ നമ്മൾ പ്രകീർണനം സംഭവിക്കുന്ന മാധ്യമങ്ങളെ നോക്കി അതിൽ നമ്മൾ ഡിബൈ മാതൃക എടുത്തു അതിനാൽ നമുക്ക് ഇത് സാധ്യമാണ് കൂടാതെ ഇത് പ്രധാനമാണ് കാരണം FDTD യിൽ നമുക്ക് സമയ പരിഷ്കരണം ആവശ്യമാണ് ഇവിടെ നമുക്ക് D യും E യും തമ്മിലുള്ള ശരിയായ ബന്ധം ലഭിച്ചു അതിനാൽ ശരിയായ ബന്ധം D എന്നത് epsilon E ക്ക് തുല്യമാണ് സൈദ്ധാന്തികമായി ഇത് സമയ ഡൊമെയ്നിൽ അല്ല ആവൃത്തി ഡൊമെയ്നിൽ ആയിരിക്കുമ്പോൾ മാത്രമാണ് ശരിയായിരിക്കുന്നത് അതിനാൽ കൃത്യസമയത്ത് വസ്തുക്കൾ പൂർത്തിയാക്കിയതായി നമ്മൾ കണ്ടു തുടർന്ന് അതിർത്തി വ്യവസ്ഥകൾ ആഗിരണം ചെയ്യുന്നതും നമ്മൾ കണ്ടു അതായത് ലളിതമായ ഒന്നാം ഓർഡർ ആഗിരണം ചെയ്യുന്ന അതിർത്തി വ്യവസ്ഥ പിന്നെ അതിർത്തി വ്യവസ്ഥകൾ ആഗിരണം ചെയ്യുന്നതിലെ കൃത്യതയില്ലായ്മ നമ്മൾ പരിശോധിച്ചു ഉദാഹരണത്തിന് പരിണാമ തരംഗങ്ങൾ ABC ആഗിരണം ചെയ്യുന്നില്ല അതിനാൽ അങ്ങനെ പ്രതിവിധി തികച്ചും പൊരുത്തപ്പെട്ട പാളികളായിരുന്നു അതിനാൽ നമ്മൾ PML കൾ നോക്കി നമ്മൾ സിദ്ധാന്തം നീട്ടിയ കോർഡിനേറ്റുകളിലൂടെ നോക്കി തുടർന്ന് അത് നമ്മൾ FDTD യിൽ നടപ്പാക്കാൻ നോക്കി നമ്മൾ പറയുന്നത് അതിർത്തി വ്യവസ്ഥ ആഗിരണം ചെയ്യൽ ABC യുടെ ആദ്യ ഓർഡർ ആണെങ്കിലും 1D സാഹചര്യത്തിൽ പോലും പരിണാമ തരംഗങ്ങളുള്ള ഒരു നഷ്ടകരമായ മാധ്യമത്തിൽ ഞാൻ ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ ABC നിങ്ങൾക്ക് ചില പ്രതിഫലനങ്ങൾ നൽകുന്നു അതിനാൽ ഇത് ABC യുടെ ഒരു പോരായ്മയായിരുന്നു PML ന്റെ അവസാന വശങ്ങൾ നോക്കിയ ശേഷം നമ്മൾ നോക്കിയത് ഉറവിടങ്ങൾ ആയിരുന്നു അതിനാൽ ഞാൻ എന്തെങ്കിലും ഉപേക്ഷിച്ചോ ഇല്ല ശരി അവസാനമായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരേണ്ടത് ഈ സോഫ്റ്റ്വെയറാണ് ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് നിങ്ങളോട് സൂചിപ്പിച്ചതാണ് ഞാൻ കാണിച്ചുതരാംകാരണം മീപ് പോലെ നിരവധി സോഫ്റ്റ്വെയറുകൾ ഉണ്ട് അതിനാൽ MIT യിലെ ഒരു അക്കാദമിക് വിഭാഗം നിർമ്മിച്ച ഒരു സോഫ്റ്റ്വെയറാണ് ഇത് എന്നതാണ് ഇതിന്റെ ഒരു വലിയ നേട്ടം അതിനാൽ ഇത് ഒരു ഓപ്പൺ സോഴ്സ് ആണ് നിങ്ങൾ പണം നൽകേണ്ടതില്ല അത് സൌജന്യമാണ് അതാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു കാരണം FDTD പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ അവരുടെ ഒരു ഉദാഹരണം നമ്മൾ നോക്കുന്നു അതിനാൽ നമ്മൾ ഇതിലൂടെ പ്രവർത്തിക്കും